ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ എവൊല്യൂഷണറി മോഡലിനെ' ക്കുറിച്ചും സ്പൈറൽ മോഡലിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുകയും വികസനം അവതരിപ്പിക്കുകയും ചെയ്തു അജിലേ മാതൃകകൾ വളരെ ജനപ്രിയമായി പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റെടുക്കുന്ന പ്രോജക്ടുകൾക്ക് ഇവയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ കാണും തുടക്കത്തിൽ ഏറ്റെടുത്തിട്ടുള്ള തരത്തിലുള്ള പ്രോജക്ടുകൾ വർഷങ്ങളായി വലിയ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ പദ്ധതികൾ വളരെ ഹ്രസ്വകാലമാണ് 1 മാസം 2 മാസം അല്ലെങ്കിൽ 3 മാസം പ്രോജക്റ്റുകൾ വളരെ സാധാരണമാണ് അതേസമയം മുമ്പ് ബഹുപാളികൾ പ്രോജക്ടുകൾ ഉണ്ടായിരുന്നു 3 വർഷം 4 വർഷം 5 വർഷത്തെ പ്രോജക്റ്റുകൾ ഇപ്പോൾ ധാരാളം പുനരുപയോഗം ഇഷ്ടാനുസൃതമാക്കൽ ജോലികൾ മാത്രമാക്കി മാറ്റുന്നു അതിനാൽ അതാണ് സേവന തരം പ്രോജക്റ്റുകൾ മുമ്പ് നമ്മൾക്ക് ആദ്യം മുതൽ ഉൽപ്പന്ന വികസനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇഷ്ടാനുസൃതമാക്കലാണ് സാവധാനം മിക്ക പ്രോജക്റ്റുകളും ഇതുപോലെയാകുകയാണ് ഉപഭോക്താക്കളുടെ ഭാഗത്ത് ഹ്രസ്വ വികസന വിന്യാസം ഫീഡ്ബാക്ക് നേടുകയും മറ്റും ഇക്കാര്യത്തിൽ അജിലേ മാതൃക വളരെ പ്രയോജനകരമാണ് മാത്രമല്ല നമ്മൾ അജിലേ മാതൃകയെക്കുറിച്ച് ചർച്ചചെയ്യാൻ തുടങ്ങിയിരുന്നു നമുക്ക് അജിലേ മാതൃകയുടെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ഉപഭോക്തൃ പങ്കാളിത്തം വർദ്ധിച്ചുവരുന്ന വികസനം ഓരോ ആവർത്തനത്തിനും മുകളിലുള്ള സംയോജനം പരിശോധന ഉപഭോക്തൃ സൈറ്റിലെ വിന്യാസം കുറഞ്ഞ പ്രമാണങ്ങൾ തുടങ്ങിയ സവിശേഷതകൾ എജൈൽ മാതൃക ഉൾക്കൊള്ളുന്നുവെന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ഇപ്പോൾ നമുക്ക് അജിലേ മാതൃകയുടെ പ്രധാന സാങ്കേതിക വിദ്യകൾ നോക്കാം ഇവിടെ ഔപചാരിക ആവശ്യകതകളൊന്നും വികസിപ്പിച്ചിട്ടില്ല ഇത് ഉപയോക്തൃ കഥകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആവശ്യകതകളുടെ ആവശ്യകതയേക്കാൾ അനൌപചാരികമാണിതെന്ന് പേര് പറയുന്നതുപോലെ ഇവ കഥകൾ പോലെയാണ് ഇവ ഉപയോഗ കേസുകളേക്കാൾ ലളിതമാണ് മൊത്തത്തിലുള്ള രൂപകൽപ്പന കാഴ്ചപ്പാട് നൽകുന്നതിന് ആവശ്യമുള്ളവയെക്കുറിച്ച് പൊതുവായ കാഴ്ചപ്പാടുള്ളതും വികസനം ആരംഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളതുമായ രൂപകങ്ങൾ അജൈൽ മാതൃക നിർദ്ദേശിക്കുന്നു ആവശ്യമുള്ളിടത്ത് ഒരു സ്പൈക്ക് ചെയ്യുന്നു സാധ്യമായ പരിഹാരം പര്യവേക്ഷണം ചെയ്യുന്നതിനായി എഴുതിയ ലളിതമായ ഒരു പ്രോഗ്രാമാണ് സ്പൈക്ക് ഇത് ഒരു പ്രോട്ടോടൈപ്പിന് സമാനമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തെല്ലാം ഒരു സ്പൈക്ക് വികസിപ്പിക്കുക സ്പൈക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ടോയെന്നും ബദൽ പരിശോധിക്കുക ഒരിക്കൽ ഉപപോക്ത്യാ സൈറ്റിൽ ഇത് വികസിപ്പിക്കുകയും ഉപഭോക്താവ് അത് അംഗീകരിക്കുകയും ചെയ്തുകഴിഞ്ഞാൽ കോഡ് കൂടുതൽ ഘടനാപരമാകുന്ന സ്വഭാവത്തെ ബാധിക്കാതെ കോഡ് പുനർരൂപീകരിക്കുക കോഡിൽ കുറച്ച് ഡിസൈൻ ഇടുക അതിനാൽ ഓരോ ആവർത്തനത്തിനുശേഷമുള്ള രൂപകൽപ്പന ചിന്താവിഷയമാണെന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ കോഡ് പുന സംഘടിപ്പിക്കുന്നു തുടക്കത്തിൽ കോഡ് പ്രവർത്തിക്കാനായി നിർമ്മിക്കുകയും പിന്നീട് അത് പുനർക്രമീകരിക്കുകയും ചെയ്യുന്നു മൊത്തത്തിലുള്ള രൂപകൽപ്പനയും മറ്റും പൊതുവായ കാഴ്ചയുള്ള ഒരു രൂപകമാണ് നമുക്കുള്ളത് ഇത് വർദ്ധനവാണ് ഓരോ തവണയും ഒരു വർദ്ധനവ് ആസൂത്രണം ചെയ്യുകയും ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുകയും ചെയ്യുമ്പോൾ ദീർഘകാല പദ്ധതികളൊന്നും തയ്യാറാക്കില്ല ആവർത്തനം കാര്യമായ പ്രവർത്തനം ചേർക്കാനിടയില്ല ഇത് നിലവിലുള്ള പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയേയുള്ളൂ എന്നാൽ ഓരോ ആവർത്തനത്തിൻറെയും അവസാനം ഉപഭോക്തൃ സൈറ്റിൽ കോഡ് വിന്യസിക്കുകയും ആവർത്തനത്തിന്റെ ദൈർഘ്യം സാധാരണയായി 2 മുതൽ 4 ആഴ്ച വരെ നിശ്ചയിക്കുകയും ചെയ്യുന്നു ഓരോ ആവർത്തനത്തിനുശേഷവും ഉപഭോക്താവ് കോഡ് നിർമ്മിക്കുന്നുവെന്നത് ഇവിടെ ഓർക്കുക കോഡ് പതിവായി ഉപയോഗപ്പെടുത്തുന്നു അവർ അത് വിലയിരുത്തുന്നു എന്നല്ല അവർ പതിവായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു അജിലേ മാതൃക എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പ്രധാന കാര്യം മുഖാമുഖ ആശയവിനിമയമാണ് ഡവലപ്പർമാർ ഒരേ കെട്ടിടം അല്ലെങ്കിൽ ഒരേ മുറി പങ്കിടുന്നത് പതിവായി രേഖകൾ പരസ്പരം കൈമാറുന്നതിനുപകരം പ്രശ്നങ്ങൾ ചർച്ചചെയ്യുകയും ആവശ്യമുള്ള കാര്യങ്ങൾ പരസ്പരം വിശദീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് മുഖാമുഖം ആശയവിനിമയം സുഗമമാക്കുന്നതിന് അവർ ഒരൊറ്റ ആഫീസ് ഇടം പങ്കിടുന്നു സാധാരണയായി കൂട്ടത്തിന്റെ വലുപ്പം 5 മുതൽ 9 വരെ ആളുകൾ ആണ് അതിനാൽ അവർക്ക് നന്നായി സംവദിക്കാൻ കഴിയും ഇത് അജിലേ മാതൃകയെ ചെറിയ പ്രോജക്റ്റുകൾക്ക് വളരെ അനുയോജ്യമാക്കുന്നു എന്നാൽ തീർച്ചയായും ഇത് വലിയ പ്രോജക്റ്റുകളിലേക്ക് തോതിൽ ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്നാൽ പിന്നീട് ഇത് ചെറിയ പ്രോജക്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത് ഇവിടെ പരാമർശിക്കേണ്ട ഒരു കാര്യം ആരോടെങ്കിലും എന്തെങ്കിലും അറിയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് വായിക്കാൻ ഒരു പ്രമാണം നൽകുന്നത് നല്ല ആശയമല്ല ഒരു വൈറ്റ്ബോർഡിലൂടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അവനെ വിശദീകരിക്കാം നിങ്ങൾ ഒരു പ്രമാണം പാസാക്കുകയോ ഫോണിലോ ഇമെയിലിലോ വിശദീകരിക്കുകയോ ചെയ്യുന്നത് നല്ല ആശയമല്ല വാസ്തവത്തിൽ വിവിധ ആശയവിനിമയ മാതൃകകളുടെ ഫലപ്രാപ്തി കണ്ടെത്താൻ പരീക്ഷണങ്ങൾ നടക്കുന്നു പരീക്ഷണങ്ങളിൽ നിന്ന് അലിസ്റ്റർ കോക്ക്ബേൺ ഇത് നൽകുന്നു വളരെ ഫലപ്രദമല്ലാത്ത ആശയവിനിമയത്തിന്റെ ഒരു തണുത്ത രൂപമാണ് പേപ്പർ എന്ന് അദ്ദേഹത്തിന് നിർണ്ണയിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ആരെയെങ്കിലും അറിയിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പേപ്പർ നൽകുക പ്രത്യേകിച്ചും സാങ്കേതിക ആശയവിനിമയം ആശയവിനിമയം നടത്താനുള്ള ഒരു നല്ല മാർഗ്ഗമല്ല ഓഡിയോ ടേപ്പ് പേപ്പറിനേക്കാൾ അല്പം മികച്ചതാണ് ഇമെയിൽ സംഭാഷണം അൽപ്പം മികച്ചതായിരിക്കാം വീഡിയോടേപ്പ് അൽപ്പം മികച്ചതാണ് വീഡിയോ സംഭാഷണം ഇപ്പോഴും മികച്ചതും വൈറ്റ്ബോർഡുമായുള്ള മുഖാമുഖ സംഭാഷണവും സാങ്കേതിക ഇനങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗമാണിത് ഇതാണ് ഇവിടെ കണ്ടെത്തൽ അതിനാൽ ഒരു വൈറ്റ്ബോർഡുമായി അവർ കണ്ടുമുട്ടുന്ന ഒരു ചെറിയ ടീം ഒരു വ്യക്തി വൈറ്റ്ബോർഡിൽ തന്റെ ആശയങ്ങൾ വിശദീകരിക്കുന്നു അത് ആശയവിനിമയം നടത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗമാണ് അത് ഈ മാതൃകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മുഖാമുഖ ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുന്നു ഉപഭോക്തൃ സൈറ്റിൽ എത്ര വര്ധനവുകൾ വിന്യസിച്ചു എന്നതിന്റെ പുരോഗതി ഇവിടെ കണക്കാക്കുന്നു ഏതാനും ആഴ്ചയിലൊരിക്കൽ പതിപ്പുകൾ പതിവായി വിതരണം ചെയ്യപ്പെടുന്നു ഉപഭോക്താവ് വിതരണം ചെയ്ത പതിപ്പുകൾ ഉപയോഗിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ നൽകുകയും ചെയ്യുന്നു ഉപഭോക്താവും ഡവലപ്പറും തമ്മിലുള്ള അടുത്ത സഹകരണമാണ് ഇവയെ ഉൾക്കൊള്ളുന്നത് ടീം അംഗങ്ങൾക്കിടയിൽ മുഖാമുഖം ആശയവിനിമയം ഉണ്ട് അജിലേ മാതൃകയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ചിലത് ഇവയാണ് എന്നാൽ പ്രമാണത്തിൽ കാര്യമെന്തെന്നാൽ അജിലേ മാതൃകയിൽ ഒരു പ്രമാണം ഇല്ല ശരിക്കും അല്ല ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ പ്രമാണം ചെയ്യാത്ത പ്രകാശം സഞ്ചരിക്കുക എന്നതാണ് ഇവിടെ ആശയം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് പ്രമാണം ആവശ്യമാണ് വെള്ളച്ചാട്ടത്തിന്റെ മാതൃകയിൽ എല്ലാം രേഖപ്പെടുത്തേണ്ടതുണ്ട് അവലോകന ഫലങ്ങൾ പദ്ധതികൾ ആവശ്യകത അവലോകനം രൂപകൽപ്പന ഉയർന്ന തലത്തിലുള്ള രൂപകൽപ്പന ഉയർന്ന തലത്തിലുള്ള ഡിസൈൻ അവലോകനം എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ പ്രധാന ആശയം രേഖകൾ തയ്യാറാക്കേണ്ടത് ആരെയെങ്കിലും ദീർഘകാലത്തേക്ക് റഫർ ചെയ്യേണ്ടിവരുമ്പോൾ മാത്രമാണ് എന്നിട്ടും ഇവ സംക്ഷിപ്തമാണ് മാറ്റാൻ സാധ്യതയില്ലാത്ത വിവരങ്ങൾക്ക് മാത്രമായിട്ടാണ് പ്രമാണം തയ്യാറാക്കിയത് വികസനത്തിന്റെ അവസാനത്തിൽ കാര്യങ്ങൾ മാറില്ല അതിനാൽ വികസന രേഖകളുടെ അവസാനം തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ആ കാര്യങ്ങൾ മാത്രമേ പ്രമാണം ചെയ്തിട്ടുള്ളൂ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ കഴിയും അത് ആരെയെങ്കിലും വളരെ വിവരദായകമായിരിക്കും അത് അറിയാൻ നല്ല കാര്യങ്ങളാണ് പ്രമാണത്തിനുവേണ്ടി പ്രമാണം സൃഷ്ടിക്കപ്പെടുന്നു എന്നല്ല പ്രമാണങ്ങൾ വേണ്ടത്ര കൃത്യവും സ്ഥിരവും വിശദവുമാണ് കാരണം കൂടുതൽ മാറ്റങ്ങളില്ലാത്തപ്പോൾ ഇവ തയ്യാറാക്കുന്നു രേഖപ്പെടുത്തുന്നതിനുള്ള സാധുവായ ചില കാരണങ്ങൾ പ്രോജക്റ്റ് പങ്കാളികൾക്ക് അത് ആവശ്യമാണ് എന്നതാണ് ഉദാഹരണത്തിന് ഉപഭോക്താവിന് അത് ആവശ്യമായിരിക്കാം അതിനായി ഒപ്പിടാൻ ഒരു കരാർ ഫോം ഉണ്ടായിരിക്കാം ഒരുപക്ഷേ അവരുടെ നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യാനോ നൽകാനോ ഇഷ്ടപ്പെടുന്ന ഒരു ബാഹ്യ ഗ്രൂപ്പ് ഉണ്ടാവാം ഒരുപക്ഷേ പ്രമാണം അവർക്കായിരിക്കും ഒരുപക്ഷേ പ്രമാണം ആയിരിക്കും പ്രോജക്റ്റ് അവസാനിച്ചതിനുശേഷം റഫർ ചെയ്യേണ്ടവർക്കായി പ്രമാണത്തിന് സാധുവായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രം രേഖകൾ തയ്യാറാക്കുന്നു വാട്ടർഫാൾ മാതൃകയിലുള്ളതുപോലെ സ്ഥിരസ്ഥിതിയായി രേഖകൾ തയ്യാറാക്കുന്നു എന്നല്ല വികസന സമയത്തിനനുസരിച്ച് ഇവിടെ ആവശ്യകതകൾ മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ ആവശ്യകതകൾ ഉണ്ടാകുമ്പോൾ അവ ഇവിടെ ആവശ്യകതകളിൽ സൂക്ഷിക്കുന്നു സ്റ്റാക്കിന് മുൻഗണന നൽകുന്നത് മുകളിൽ ആദ്യം എടുക്കുന്നവയാണ് ഇവയ്ക്ക് ഉയർന്ന മുൻഗണനയുണ്ട് ഇവയെല്ലാം ആവശ്യകതകളാണ് കൂടാതെ സ്കോട്ട് ആംബ്ലേഴ്സ് നൽകിയ ഈ ഡയഗ്രം ആവശ്യകതകൾ തുടർന്നും ബുക്ക് ചെയ്യുന്നു അവ സ്റ്റാക്കിൽ ചേർക്കുന്നു ആവശ്യമുള്ളപ്പോഴെല്ലാം അവ നീക്കംചെയ്യുന്നു അവ പുനർനിർമ്മിക്കപ്പെടുന്നു പക്ഷേ ഓരോ ആവശ്യകതയ്ക്കും ഒരു മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട് തുടർന്ന് ഇത് ചലനാത്മകമായി മാറ്റപ്പെടും അജിലേ മാതൃകയ്ക്കു ധാരാളം ഗുണങ്ങളുണ്ട് പക്ഷേ അത് പ്രായോഗികമായി ഉപയോഗപ്രദമാക്കുന്നതിന് ചില അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യത്തെ കാര്യം ഇവിടെ രേഖകൾ ഇല്ല എന്നതാണ് ഇത് ഒരു വൈറ്റ്ബോർഡിലെ വിശദീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ആർക്കെങ്കിലും തെറ്റിദ്ധരിക്കാനാകും സംശയമുള്ളപ്പോൾ പരസ്പരം ആലോചിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഉയർന്ന നിലവാരമുള്ള ആളുകളുടെ കഴിവുകൾ ആവശ്യമാണ് ദീർഘകാല രൂപകൽപ്പന നടത്തിയിട്ടില്ല ഹ്രസ്വ ആവർത്തനങ്ങൾ ഇവ ഡിസൈൻ ഘടനയെ തരംതാഴ്ത്തുന്നു ഫീച്ചർ ക്രീപ്പ് എന്നത് ഉപഭോക്താക്കളോ ഡവലപ്പർമാരോ കൂടുതൽ അഭിലാഷമാകുന്ന പദമാണ് സവിശേഷത എത്രമാത്രം ഉപയോഗിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ സംയോജിപ്പിക്കാൻ കഴിയുന്ന പുതിയ സവിശേഷതകൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും ഉപഭോക്താവിന് എന്താണ് മൂല്യം അത് വികസിപ്പിക്കുന്നതിനുള്ള ചെലവ് എത്രയായിരിക്കും സവിശേഷത ചേർത്തതിനുശേഷം സവിശേഷത അതിനാൽ അജിലേ മാതൃക ഫീച്ചർ ക്രീപ്പിന് ഉയർന്ന അപകടസാധ്യതയുണ്ട് കാരണം ഫീഡ്ബാക്ക് നൽകാനും പുതിയ സവിശേഷതകൾക്കായി അഭ്യർത്ഥിക്കാനും മറ്റും സ്വാതന്ത്ര്യം നൽകുന്നു അതിനാൽ പ്രോജക്റ്റ് മാനേജർക്ക് ഫീച്ചർ ക്രീപ്പ് കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് മാത്രമല്ല വികസനം ചലനാത്മകമായതിനാൽ സവിശേഷതകൾ പുതിയ സവിശേഷതകൾ മാറ്റുകയും മറ്റും മാറ്റുകയും ചെയ്യുന്നു ഒരു വികസനത്തിന് മുൻകൂറായി ചിലവ് നൽകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വികസനം നടക്കുന്ന ഒരു മുൻകൂട്ടി സമയരേഖ നൽകുന്നത് ബുദ്ധിമുട്ടുള്ളതും ഗുണനിലവാരമുള്ളതുമാണ് ഒരു പ്രമാണം ഒരു നല്ല കാര്യമാണ് അത് പ്രമാണം തയ്യാറാക്കുന്നതിനുള്ള സമയ പരിശ്രമം ലാഭിക്കുന്നു പക്ഷേ പ്രമാണത്തിന്റെ അഭാവം അറിഞ്ഞിരിക്കണം സാധ്യതയുണ്ട് തെറ്റായ വ്യാഖ്യാനത്തിനുള്ളപ്രമാണത്തിൽ അവലോകനങ്ങൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് കൂടാതെ ചിതറിപ്പോകുന്നതിന് മുമ്പായി പ്രോജക്ടിന്റെ അവസാനത്തിൽ രേഖകൾ ബോധപൂർവ്വം തയ്യാറാക്കിയില്ലെങ്കിൽ പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ അറ്റകുറ്റപ്പണി ബുദ്ധിമുട്ടായിരിക്കും

അജിലേ മോഡലിനെക്കുറിച്ചുള്ള ഈ മൊത്തത്തിലുള്ള ധാരണയോടെ നമുക്ക് ചില നിർദ്ദിഷ്ട ചാപലമായ പ്രക്രിയകൾ നോക്കാം എക്സ്പി മോഡൽ എന്നും അറിയപ്പെടുന്ന എക്സ്ട്രീം പ്രോഗ്രാമിംഗാണ് വളരെ പ്രചാരത്തിലുള്ള ഒരു അജിലേ പ്രക്രിയ ഇത് കെന്റ് ബെക്ക് 1999 നിർദ്ദേശിച്ചതാണു ഇവിടെ അവതരിപ്പിക്കുന്ന പ്രധാന ഇനങ്ങൾ ജോഡി പ്രോഗ്രാമിംഗ് ആണ് ഒരു ജോഡി പ്രോഗ്രാമിംഗിൽ ഓരോ ഡെസ്ക്ടോപ്പിനെയും രണ്ട് പ്രോഗ്രാമർമാർ നിയന്ത്രിക്കുന്നു അവലോകനം ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് എന്നതാണ് ഇവിടെ പ്രധാന ആശയം അതിനാൽ പരസ്പരം നിരന്തരം അവലോകനം ചെയ്യരുത് ഒരു പ്രോഗ്രാമർ പ്രോഗ്രാം എഴുതുമ്പോൾ മറ്റ് പ്രോഗ്രാമർമാർ കോഡിലൂടെ കടന്നുപോകുകയും അത് മികച്ച കോഡ് കൂടുതൽ കാര്യക്ഷമമായ കോഡ് തെറ്റുകൾ ഒഴിവാക്കുക തുടങ്ങിയവ എങ്ങനെ ചെയ്യാമെന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും അവലോകനങ്ങൾ നടത്തുകയും ചെയ്യുന്നു കൂടാതെ ഒരു മണിക്കൂറോളം ടേക്ക് ടേൺ വൺ പ്രോഗ്രാമർ പ്രോഗ്രാം പ്രോഗ്രാമുകൾ കുറച്ച് പ്രവർത്തങ്ങൾ എഴുതുന്നു തുടർന്ന് മറ്റ് പ്രോഗ്രാമർ ഏറ്റെടുക്കുന്നു ആദ്യത്തെ പ്രോഗ്രാമർ അവലോകനം ചെയ്യുന്നിടത്ത് കുറച്ച് പ്രവർത്തങ്ങൾ കൂടി എഴുതുക ഇവിടെ എല്ലാ ദിവസവും പരിശോധന നടക്കുന്നു പരിശോധന അവസാനിക്കുന്ന വെള്ളച്ചാട്ട മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ടെസ്റ്റ് കേസുകൾ തുടർച്ചയായി എഴുതുകയും ഒരു സവിശേഷത കൈമാറുന്നതിനുമുമ്പ് ടെസ്റ്റ് കേസുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു ഒരു സവിശേഷത നടപ്പിലാക്കുന്നതിന് മുമ്പ് ആ സവിശേഷതയ്ക്കായി ടെസ്റ്റ് കേസുകൾ എഴുതുകയും ടെസ്റ്റ് കേസുകൾ കടന്നുപോകുമ്പോൾ സവിശേഷത പാസായി കണക്കാക്കുകയും ചെയ്യുന്നു ഇതിനെ ടെസ്റ്റ് ഡ്രൈവെൻ വികസനം എന്ന് വിളിക്കുന്നു ഇൻക്രിമെൻറ് ഡെവലപ്മെൻറ് ഇവിടെ നടക്കുന്നു അങ്ങേയറ്റത്തെ പ്രോഗ്രാമിംഗ് എന്ന പേര് വന്നത് നല്ല രീതികളെ അങ്ങേയറ്റത്തെത്തിക്കുന്നു എന്നതാണ് നല്ല രീതികൾ കോഡ് അവലോകനം നല്ലതാണ് ഇത് ജോഡി പ്രോഗ്രാമിംഗ് പരിശോധനയുടെ രൂപത്തിലാണ് നടപ്പിലാക്കുന്നത് നല്ല പരിശീലനവും അതിനാൽ പരീക്ഷണാധിഷ്ഠിത വികസനവും വർദ്ധിച്ചുവരുന്ന വികസനം നല്ലതാണ് അതിനാൽ ഓരോ കുറച്ച് ദിവസത്തിലും വിതരണത്തിൽ പുതിയ ഇൻക്രിമെന്റുകൾ വികസിക്കുന്നു ലാളിത്യം നല്ലതാണ് അതിനാൽ ലളിതമായ ഡിസൈൻ വികസിപ്പിച്ചെടുത്തു പതിറ്റാണ്ടുകൾക്ക് ശേഷമോ ദീർഘനേരമോ ആവശ്യമുള്ള വിപുലീകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കരുത് അതിനുശേഷം ചില മെച്ചപ്പെടുത്തലുകൾ ആവശ്യമായി വന്നേക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇപ്പോൾ ഇത് പ്രവർത്തിപ്പിക്കുക ലളിതമായ രൂപകൽപ്പന പ്രവർത്തിപ്പിക്കുക ഡിസൈനിംഗ് നല്ലതാണ് അതിനാൽ സോഫ്റ്റ്വെയർ വിന്യസിച്ചതിന് ശേഷം കോഡ് ഒന്നുകൂടി മാറ്റി ചെയ്യുക കുറച്ച് ഡിസൈൻ ഇടുക കോഡ് മികച്ച വാസ്തുവിദ്യ ആക്കുക അതിനാൽ ഒരു രൂപകത്തെ നിർവചിക്കേണ്ടതുണ്ട് സംയോജന പരിശോധന പ്രധാനമാണ് അതിനാൽ വികസനം പുരോഗമിക്കുമ്പോൾ നിരന്തരമായ സംയോജനമാണ് ദിവസത്തിൽ പല തവണ നിർമ്മിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നത് സംയോജനം അവസാനം മാത്രം നടന്ന വെള്ളച്ചാട്ടത്തിന്റെ മാതൃകയിലെ ഒരു പ്രധാന പ്രശ്നമാണിതെന്ന് ഓർമ്മിക്കുക ഇവിടെയുള്ള നാല് മൂല്യങ്ങൾ ആശയവിനിമയം മുഖാമുഖം ആശയവിനിമയം ലാളിത്യം ലളിതമായ രൂപകൽപ്പന നടപ്പിലാക്കുക എന്നിവ നാളത്തെ ശ്രദ്ധിക്കാനിടയില്ല ഫീഡ്ബാക്കിന് ഉപഭോക്തൃ ഫീഡ്ബാക്ക് നേടുക ഉപഭോക്തൃ ഫീഡ്ബാക്ക് പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് ഉപഭോക്താവിൽ നിന്ന് ഫീഡ്ബാക്ക് ലഭിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ് കാരണം അവസാനം അവർ നിരസിക്കും അവർ അസന്തുഷ്ടരാകും ഇവിടെ മറ്റൊരു മൂല്യം ധൈര്യമാണ് ചില കോഡ് നല്ലതല്ലെങ്കിൽ അത് നിരസിക്കുക ഡിസൈൻ നല്ലതല്ല ഡിസൈൻ ഉപേക്ഷിക്കുക ഡിസൈൻ വീണ്ടും ചെയ്യുക ബഗ്ഗുകൾ പരീക്ഷണം കോഡിങ്ങ് ഒരു നല്ല ശീലം പരമപ്രാധാന്യം ശ്രദ്ധ ആണ് ഉപഭോക്തൃ കേൾക്കുകയും കണ്ടെത്താൻ തെറ്റ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ നിർമ്മാണം ഒരു നല്ല ശീലം മാർഗ്ഗം അതിനാൽ ടെസ്റ്റിംഗ് ശ്രദ്ധയോടും പ്രാധാന്യം ഒരു നല്ല ശീലം ആണ് ഉപഭോക്താവിന് ശരിക്കും ആവശ്യമാണ് ശരിയായ രൂപകൽപ്പനയില്ലാതെ രൂപകൽപ്പന ചെയ്യുന്നത് സിസ്റ്റം സങ്കീർണ്ണമാകും അതിനാൽ ഡിസൈൻ സിസ്റ്റത്തിലേക്ക് ഇടുക ഉപഭോക്തൃ ഫീഡ്ബാക്ക് നേടുന്നതിനുള്ള പ്രധാന കാര്യമാണ് ഫീഡ്ബാക്ക് ടെസ്റ്റ് നയിക്കുന്ന വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഉപയോക്തൃ കഥയെ അടിസ്ഥാനമാക്കി കോഡ് എഴുതുന്നതിനുമുമ്പ് ടെസ്റ്റ് കേസുകൾ വികസിപ്പിക്കുക ആദ്യം ടെസ്റ്റ് കേസുകൾ എഴുതുക അത് ടെസ്റ്റ് നയിക്കുന്ന വികസനമാണ് ആദ്യം ഉപയോക്തൃ കഥയെ അടിസ്ഥാനമാക്കി ടെസ്റ്റ് കേസുകൾ എഴുതി അത് നടപ്പിലാക്കുക നടപ്പിലാക്കിയാൽ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കുക എല്ലാ ടെസ്റ്റ് കേസുകളും വിജയിക്കുന്നതുവരെ വികസനം പൂർത്തിയാകില്ല നൽകേണ്ട ഓരോ കുറച്ച് ദിവസത്തിലും വർദ്ധനവുകൾ വികസിപ്പിക്കുക ഉപഭോക്തൃ ഫീഡ്ബാക്ക് നേടുക ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുക ഒടുവിൽ ഉപഭോക്തൃ മാറ്റങ്ങൾ അംഗീകരിച്ചുകഴിഞ്ഞാൽ കോഡ് മികച്ചതാക്കുക കുറച്ച് ഡിസൈൻ ഇടുക തുടർന്ന് അടുത്ത സവിശേഷത ഏറ്റെടുക്കുക ഇപ്പോൾ നമുക്ക് കുറച്ച് പരിശീലന ചോദ്യങ്ങൾ നോക്കാം ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഇറ്ററേറ്റിവ് വാട്ടർഫാൾ മാതൃക ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നുവെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ദയവായി നോക്കുക ആവർത്തന വാട്ടർഫാളിന്റെ പ്രധാന ദോഷങ്ങൾ എന്തൊക്കെയാണ് കാരണം നിങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത ഇറ്ററേറ്റിവ് വാട്ടർഫാൾ മാതൃകയുടെ ദോഷങ്ങളെ മറികടക്കാൻ പിന്നീടുള്ള മാതൃകകൾ നിർദ്ദേശിക്കപ്പെട്ടു വാട്ടർഫാൾ മാതൃകയിലെ നിരവധി പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനം മാറ്റ ആവശ്യകതകൾ കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് അജിലേ മാതൃക ഇത്രയധികം ജനപ്രിയമായത് വാട്ടർഫാൾ മാതൃകയുടെ ഏത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നു നിലവിലെ തരത്തിലുള്ള പ്രോജക്ടുകളുമായി ഇത് എങ്ങനെ യോജിക്കുന്നു ഇല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് നേരിടേണ്ടിവരുന്നത് ഒരു വലിയ പ്രോജക്റ്റിൽ ജീവിതചക്ര മാതൃക പിന്തുടരുന്നു കാരണം നിങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത ആവർത്തന വാട്ടർഫാൾ മാതൃകയുടെ ദോഷങ്ങളെ മറികടക്കാൻ പിന്നീടുള്ള മാതൃകകൾ നിർദ്ദേശിക്കപ്പെട്ടു വാട്ടർഫാൾ മാതൃകയിലെ നിരവധി പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനം മാറ്റ ആവശ്യകതകൾ കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് അജിലേ മാതൃക ഇത്രയധികം ജനപ്രിയമായത് വെള്ളച്ചാട്ടത്തിന്റെ മാതൃകയുടെ ഏത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നു നിലവിലെ തരത്തിലുള്ള പ്രോജക്ടുകളുമായി ഇത് എങ്ങനെ യോജിക്കുന്നു ഇല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് നേരിടേണ്ടിവരുന്നത് ഒരു വലിയ പ്രോജക്റ്റിൽ ജീവിതചക്ര മാതൃക പിന്തുടരുന്നു അതിനാൽ വര്ധനവുകളെ സാധാരണയായി ഒരു മാസത്തെ സ്പ്രിന്റുകളായി വിളിക്കുന്നു ഇവിടെ ആവശ്യകതകൾ കീഴടക്കി ഒരു ഉൽപ്പന്ന ബാക്ക്ലോഗ് എന്ന് വിളിക്കപ്പെടുന്നതുപോലെയുള്ള ആവശ്യകതകൾ നമ്മൾ പരിശോധിക്കുന്നു അതിനാൽ അജിലേ പ്രക്രിയകളിലൊന്ന് വികസനം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യകതകൾ ഇവിടെയുണ്ട് ചിലത് ഇല്ലാതാക്കാം മാറ്റാം ഇതിനെ ഒരു ഉൽപ്പന്ന ബാക്ക്ലോഗ് എന്ന് വിളിക്കുന്നു ഓരോ സ്പ്രിന്റിലും ഒരു സ്പ്രിന്റ് ഒരു മാസം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനമാണ് സ്പ്രിന്റ് ബാക്ക്ലോഗിന് രൂപം നൽകുന്ന മുൻഗണനാ സവിശേഷത ആവശ്യകതകളിലൊന്ന് പുറത്തെടുക്കുകയും സ്പ്രിന്റ് ബാക്ക്ലോഗ് ലഭിച്ചുകഴിഞ്ഞാൽ ഇത് മേലിൽ മാറ്റില്ല ഇത് മാറ്റുന്നതിൽ നിന്ന് പ്രതിരോധശേഷിയുള്ളതാണ് ഇത് ഇവിടെ ഒരു മാസത്തിലധികം ആവർത്തനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഡവലപ്പർമാർ ദിവസേനയുള്ള സ്ക്രം മീറ്റിംഗിനായി എന്താണ് സംഭവിച്ചതെന്ന് അവലോകനം ചെയ്യുന്നു അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയവ അവലോകനം ചെയ്യുകയും അവർ സ്പ്രിന്റ് ബാക്ക്ലോഗ് പൂർത്തിയാക്കുകയും ചെയ്യുന്നു സ്പ്രിന്റ് ബാക്ക്ലോഗിൽ ഇവിടെ നിന്ന് തിരിച്ചറിഞ്ഞ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവ വികസന ടീം നൽകുന്ന സ്പ്രിന്റ് ബാക്ക്ലോഗിൽ ഇടുന്നു ഈ പ്രവർത്തനങ്ങൾ ദിവസേനയുള്ള സ്ക്രമ്മിൽ പൂർത്തിയാകുകയും ഒടുവിൽ സ്പ്രിന്റ് അവലോകനം നടത്തുകയും ചെയ്യുന്നു സ്പ്രിന്റ് അവലോകനം ചെയ്യുകയും ഉൽപ്പന്ന വർദ്ധനവ് ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുകയും ചെയ്യുന്നു അതിനാൽ അതാണ് ഇവിടെ പ്രധാന ആശയം പുരോഗതി സ്പ്രിന്റുകളുടെ രൂപത്തിലാണ് കാലാവധി സാധാരണയായി ഒരു മാസമാണ് ഒരു മാസത്തിനുള്ളിൽ ഉൽപ്പന്ന ബാക്ക്ലോഗിൽ നിന്നുള്ള ചില സവിശേഷതകൾ ഏറ്റെടുക്കുന്നു ഡിസൈൻ കോഡ് ചെയ്തു പരീക്ഷിച്ചു സ്പ്രിന്റ് ആരംഭിച്ചുകഴിഞ്ഞാൽ എടുത്ത ആവശ്യകതകൾ മാറ്റാൻ അനുവദിക്കില്ല അല്ലാത്തപക്ഷം സ്പ്രിന്റ് ഒത്തുചേരില്ല ഉൽപ്പന്ന ബാക്ക്ലോഗിൽ നിന്ന് സവിശേഷത എടുത്തുകഴിഞ്ഞാൽ അവ മാറ്റാൻ അനുവദിക്കില്ല എന്നതാണ് ഇവിടെയുള്ള ഒരു തത്വം ഇവിടെ ചില പദങ്ങൾ റോളുകൾ സെറിമോനിസ് ആര്ടിഫാക്ടസ് റോൾസിൽ ഉൾപ്പെടുന്നത് ഒന്ന് പ്രോഡക്റ്റ് ഉടമയാണ് ടീം അംഗങ്ങളിൽ ഒരാൾ പ്രോഡക്റ്റ് ഉടമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതായതു കസ്റ്റമീറിന് വേണ്ടി അദ്ദേഹത്തിന് ഉപഭോക്തൃ വീക്ഷണമുണ്ട് അതുപോലെ പ്രോജക്ട് മാനേജരെപ്പോലെയുള്ള സ്ക്രം മാസ്റ്ററും ടീം അംഗങ്ങളും റോൾസിൽ ഉൾപ്പെടുന്നു വികസന സമയത്ത് വിവിധ സെറിമോനിസ് അഥവാ ചടങ്ങുകൾ നടത്തുന്നു അതിലൊന്നാണ് സ്പ്രിന്റ് ആസൂത്രണം ഒരു സ്പ്രിന്റിന്റെ അവസാനം സ്പ്രിന്റ് അവലോകനം സ്പ്രിന്റ്മുൻകാല അവലോകനം ദൈനംദിന സ്ക്രം മീറ്റിംഗ് എന്നിവ വിവിധ ആര്ടിഫാക്ടസ് നിർമ്മിക്കുന്നു ഒന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞ ആവശ്യകതകളുടെ ട്രാക്ക് സൂക്ഷിക്കുന്ന ഉൽപ്പന്ന ബക്കലോഗാണ് വികസന വരുമാനമായി കൂടുതൽ ആവശ്യകതകൾ തിരിച്ചറിയാൻ കഴിയും അവ മുൻഗണനാക്രമത്തിൽ സൂക്ഷിക്കുന്നു അതുപോലെ സ്പ്രിന്റ് ബക്കലോഗാണ് ഇതാണ് സ്പ്രിന്റ് സമയത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചുവെന്ന് ഇവിടെയുള്ള ബേൺ ഡൌൺ ചാർട്ടുകളുടെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു പ്രോഡക്റ്റ് ഉടമയ്ക് ഉപഭോക്തൃ കാഴ്ചപ്പാട് ഉണ്ട് വികസന ടീമിൽ ക്രോസ് ഫങ്ഷണൽ കഴിവുകൾ ഉള്ള അഞ്ചു ഒമ്പത് ആളുകൾ ഉണ്ട് ആണ് സ്ക്രം മാസ്റ്ററെ പ്രോജക്ട് മാനേജർ എന്നും വിളിക്കുന്നു ടീമിനും പുറത്തിനും ഇടയിലുള്ള ബഫറാണ് അദ്ദേഹം സ്ക്രം സുഗമമാക്കുന്നത് ഒപ്പം ടീം അംഗങ്ങൾ അഭിമുഖീകരിക്കുന്നേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുകയും ചെയ്യുന്നു ഉൽപ്പന്ന ഉടമ ടീം അംഗങ്ങളിൽ ഒരാളാണ് അല്ലെങ്കിൽ ടീമിന്റെ ഭാഗമായ ഉപഭോക്തൃ പ്രതിനിധികളിൽ ഒരാളായിരിക്കാം ഉപഭോക്താവിന്റെ പ്രതിനിധിയെപ്പോലെ അയാൾ പ്രവർത്തിക്കുന്നു റിലീസ് തീയതിയിൽ തീരുമാനിക്കേണ്ട സവിശേഷതകൾ എന്താണെന്ന് നിർവചിക്കുന്നത് അവനാണ് മാർക്കറ്റ് മൂല്യം എന്തായിരിക്കുമെന്നത് അനുസരിച്ച് ഉപഭോക്തൃ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി സവിശേഷതകൾക്ക് മുൻഗണന നൽകുന്നു ഓരോ ആവർത്തനത്തിലും ഉൽപ്പന്ന ബാക്ക്ലോഗിലെ സവിശേഷതകളും മുൻഗണനയും ക്രമീകരിക്കുക ഒടുവിൽ ഫലങ്ങൾ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക സ്ക്രമിന് പിന്നിലെ പ്രധാന ആശയം നമ്മൾ കണ്ടു സ്ക്രാമിൽ ധാരാളം പദങ്ങൾ ഉണ്ട് ചില പദാവലി നമ്മൾ കണ്ടു ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ് അജൈൽ സ്ക്രം മാതൃകയെ കുറച്ച് പദങ്ങളും ആശയങ്ങളും ഈ പ്രഭാഷണത്തിൽ ചർച്ചചെയ്യാൻ കഴിയില്ല അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും വികസന ജീവിത ചക്രങ്ങളെക്കുറിച്ചുള്ള ചർച്ച അടുത്ത പ്രഭാഷണത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യും